നമുക്കു ഇവിടെ മറ്റൊന്നിലേക്കു വരാം നമുക്ക് ഇവിടെ R in ആണ് കണ്ടു പിടിക്കണ്ടത് അതായതു RThevenin എന്നാൽ ഇവിടെ ഒരു ആശ്രിത കറന്റ് സ്രോതസ്സ് ഉണ്ട് ആശ്രിത കറന്റ് സ്രോതസ്സ് ഉണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര കറന്റ് സ്രോതസ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് സ്രോതസ്സ് സ്ഥാപിക്കുക ഇവിടെ ഒരു സ്വതന്ത്ര കറന്റ് സ്രോതസ്സ് ഇടാൻ കഴിയും ഇത് 1 ആമ്പിയർ ആണ് ഇവിടെ വോൾട്ടേജ് V0 കാണാം ഈ സ്വതന്ത്ര കറന്റ് സ്രോതസ്സ് i0 1 ആമ്പിയർ അതിനർത്ഥം R input അതായത് RThevenin V0 i0 i0 1 ആമ്പിയർ എടുക്കും ഞാൻ അത് മായ്ക്കട്ടെ ഇപ്പോൾ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വിശദീകരണങ്ങളും ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ നേരിട്ട് ഇവിടെ പോകുന്നു അതിനാൽ ഇവിടെ 1 ആമ്പിയർ അതായത് നമ്മൾ സ്വതന്ത്ര കറന്റ് സ്രോതസ്സ് എന്നു വിളിക്കുന്നത് ഇടുക ഈ വോൾട്ടേജ് V എന്നു എടുക്കുകയും കറന്റ് i ഉം ആണ് അതിനാൽ R2 V i ആയി മാറും എനിക്ക് അവസാനമായി V ലഭിക്കണം അതിനാൽ ചോദ്യം ഇതാണ് ഞാൻ i 1 ആമ്പിയർ എടുത്തിട്ടുണ്ടെങ്കിൽ V i V 1 V അർത്ഥമാക്കുന്നത് V മൂല്യം എന്താണെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് R അതായതു R2 എന്താണെന്നു അറിയാൻ പറ്റും ഇത് മായിച്ചിട്ടു അല്പം മുകളിലേക്ക് നീങ്ങാൻ അനുവദിക്കുക ഈ സാഹചര്യത്തിൽ ഈ സർക്യൂട്ടിനായി എന്തുചെയ്യാൻ കഴിയും ഇത് സാധാരണ നോഡാണ് ഇവിടെ i 1 ആമ്പിയർ കറന്റ് പ്രവേശിക്കുന്നു ഇത് ഒരു സാധാരണ നോഡാണ് ഇത് വോൾട്ടേജ് V നോഡൽ വിശകലനത്തിൽ നിന്ന് ഇത് ഒരു സാധാരണ നോഡാണ് ഇവിടെ V V യുടെ ഇടയിൽ ഒന്നുമില്ല ഇത് ഒരു സാധാരണ നോഡാണ് node അതിനാൽ V ഉം V ഉം അർത്ഥം ഇവിടെ സമാനമാണ് അതിനർത്ഥം i ആ r ലേക്ക് പ്രവേശിക്കുന്നുവെന്നത് ആണ് ഇവിടെ KCL പ്രയോഗിക്കുകയാണെങ്കിൽ i പ്രവേശിക്കുന്നു ആ സാഹചര്യത്തിൽ i 1 ആമ്പിയർ വേറെ ഒരു കറന്റ് 32 ix ഉം പ്രവേശിക്കുന്നു അതിനാൽ 3 2 ix ഈ 2 കറന്റും പ്രവേശിക്കുന്നു ഈ കറന്റ് ഈ ബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ അത് V25 ആയിരിക്കും അതിനാൽ ഇവിടെ ഇത് V 25 ആണ് മറ്റൊരു വോൾട്ടേജ് 50 ഉം ഇവിടെ ഉണ്ട് അങ്ങനെ ഇവിടെ പുറത്തേക്കു പോകുന്നത് V 50 ആയിരിക്കും യഥാർത്ഥത്തിൽ നമുക്കു എന്തു ചെയ്യാൻ കഴിയും അതായത് നോഡൽ നിർമ്മാണം പോലെ അത് ഗ്രൌണ്ട് ചെയ്യാൻ കഴിയും ഇവിടെ ഇത് V 50 ആണ് V 25 V 50 1 3 2 ix എന്നാൽ ചോദ്യം ഇതാണ് ix നൽകിയിട്ടുണ്ട് ix യഥാർത്ഥത്തിൽ V 50 ആണ് അതിനർത്ഥം ഇതാണ് നിങ്ങളുടെ ix അത് V 50 ആണ് ഈ പദപ്രയോഗത്തിൽ 3 2 ix ൽ ix V 50 ആക്കുക അപ്പോൾ V യ്ക്കുള്ള ഉത്തരം ലഭിക്കും ഞാൻ ഇത് മായ്കട്ടെ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇത് അങ്ങനെയാണെങ്കിൽ ix V 50 ഇടുക ഉത്തരം കണ്ടു പിടിക്കുക V 33 3 വോൾട്ട് ലഭിക്കും R2 ഇത് ലളിതമായി V ആയിരിക്കും അതിനാൽ ഇത് 33 3 Ω ആണ് അടുത്തത് ഉദാഹരണം 4 18 ആണ് ചിത്രം 46 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന് തുല്യമായ തെവെനിൻ കണ്ടെത്തുക അതിനാൽ Voc VThevenin R2 എന്നിങ്ങനെയുള്ള തെവെനിൻ തുല്യത കണ്ടെത്തേണ്ടതുണ്ട് ഇത് തുറന്നിരിക്കുന്നു ഇവിടെ ഒരു കറന്റും ഒഴുകുന്നില്ല Voc അല്ലെങ്കിൽ VThevenin കണക്കുകൂട്ടുന്ന സമയത്ത് നമ്മൾ KVL പ്രയോഗിക്കേണ്ടതുണ്ട് VThevenin എന്ന് വിളിക്കുന്നത് ലഭിക്കണം ഇവിടെ കറന്റ് ഒഴുകുന്നില്ല കാരണം ഇത് തുറന്നിരിക്കുന്നു ഈ വോൾട്ടേജ് V ആണെങ്കിൽ ഇത് ഒരു പരസ്പരബന്ധിതമായ ടെർമിനലാണ് അതിനാൽ വോൾട്ടേജ് V ഉം ഇത് 100 വോൾട്ടും ആണ് ഇവിടെ വൈദ്യുത മൂലകങ്ങളൊന്നും ഇല്ല എന്നു വെച്ചാൽ ഈ പോയിന്റ് വോൾട്ടേജ് 100 വോൾട്ട് ആണ് ഇത് ഗ്രൌൻഡഡ് ആണ് നിലവുമായി ബന്ധപ്പെട്ട് വൈദ്യുത ഘടകങ്ങളൊന്നുമില്ല ഈ പോയിന്റ് വോൾട്ടേജ് 100 വോൾട്ട് ആണ് ഇത് 2 ഉം യഥാർത്ഥത്തിൽ ഒരു പരസ്പരബന്ധിതമായ നോഡാണ് വൈദ്യുത ഘടകങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഈ നോഡിൽ നിന്ന് പുറപ്പെടുന്ന വൈദ്യുതധാരയുടെ ദിശ എടുത്താൽ അത് V 100 10 ആയിരിക്കും ഈ 10 Ω പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന കറന്റ് V 10010 ആയിരിക്കും ഇതാണ് ഈ 10 Ω പ്രതിരോധത്തിലൂടെ ബാഹ്യ ദിശയിലേക്കു ഒഴുകുന്ന കറന്റ് അതുപോലെ ഇവിടെയും ഇത് V 40 ആയിരിക്കും ഇത് V 40 ആയിരിക്കും മറ്റൊരു കാര്യം ഇത് കറന്റ് സ്രോതസ് ആണ് ഒരു കറന്റ് സ്രോതസ് ഇവിടെയുണ്ട് അത് 20 ആമ്പിയർ ആണ് അതായത് ഇതിലൂടെ ഒഴുകുന്ന കറന്റ് 20 ആമ്പിയർ ആണ് അത് പുറത്തേക്കു പോകുന്നു അതിനർത്ഥം ഇപ്പോൾ ഇവിടെ KCL പ്രയോഗിച്ചാൽ V 100 10 ഈ കറന്റും പുറത്തേക്കു പോകുന്നു ഇത് ഒരു സാധാരണ നോഡാണ് കാരണം ഓരോ തവണയും ഞാൻ ആവർത്തിക്കുന്നില്ല ഇത് ഒരു സാധാരണ നോഡാണെന്ന് മനസ്സിലാക്കാം അതിനാൽ അതിനർത്ഥം ഇത് V 10010 ആയിരിക്കും കാരണം എല്ലാ വൈദ്യുതധാരകളും പുറത്തേക്കു പോകുന്നു V 40 ഈ 20 ആമ്പിയർ കറന്റും പുറത്തേക്കു പോകുകയാണ് കാരണം ഇത് കറന്റ് സ്രോതസ്സ് ആണ് 0 ഇത് പരിഹരിച്ചാൽ V യുടെ മൂല്യം ലഭിക്കും അതിനാൽ അങ്ങനെയാണെങ്കിൽ V ഞാൻ എഴുതിയതെന്തും V 80 വോൾട്ട് ലഭിക്കും ഇപ്പോൾ V 80 വോൾട്ട് ലഭിക്കുന്നു അതിനർത്ഥം ഈ വോൾട്ടേജ് ഇത് V തന്നെയാണ് ലഭിച്ചത് 80 വോൾട്ട് ആണെന്നും ഇത് പ്ലസ് മൈനസ് ആണെന്നും കരുതുക ഇപ്പോൾ കെവിഎൽ ഇതുപോലെ പ്രയോഗിക്കുക അതിനാൽ ഇതുപോലെ നീങ്ങുകയാണെങ്കിൽ ആദ്യം എത്തുന്നത് മൈനസ് ടെർമിനൽ ആണ് അതിനാൽ 20 ഇത് V ആണ് ഇത് പ്ലസ് മൈനസ് ആണ് അതിനാൽ പ്ലസ് അതേ V ആദ്യം എത്തുന്നത് മൈനസ് ടെർമിനൽ ആണ് VThevenin 0 അതിനർത്ഥം 20 വി 80 VThevenin അതായത് VThevenin 100 വോൾട്ട് അതിനാൽ കണക്കുകൂട്ടലിന്റെ പിന്നീട് ആദ്യം അതേ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ Voc ഇപ്പോൾ VThevenin 100 വോൾട്ട് ലഭിക്കുന്നു അതിനാൽ ചിത്രം 47 സർക്യൂട്ട് വോൾട്ടേജ് സ്രോതസ്സുകൾ ഷോർട്ട് സർക്യൂട്ടും കറന്റ് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഇപ്പോൾ R2 കണ്ടു പിടിക്കാൻ വേണ്ടി ഇവിടെ ഒരു കറന്റ് സ്രോതസ്സ് ഉണ്ടായിരുന്നു അതിനാൽ ഈ കറന്റ് സ്രോതസ്സ് തുറന്നിരിക്കുന്നു ഇവിടെ ഈ വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു അതിനാൽ ഇതിന് ഒരു എഫക്റ്റും ഉണ്ടാകില്ല ഇത് പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി ഒന്നുമില്ല കാര്യം ഇതാണ് 5 Ω ഇത് ഷോർട്ട് സർക്യൂട്ട് ആയത് കൊണ്ട് ഈ 5 ohm ന് യഥാർത്ഥത്തിൽ ഒരു മൂല്യവുമില്ല നിങ്ങൾക്കു മനസിലാകുന്നതിനായി ഈ ശാഖയ്ക്കായി ഞാൻ R 0 എടുത്താൽ 0 ഉം 5 Ω ഉം സമാന്തരമാണ് അതിനാൽ 0 5 0 5 0 അതിനാൽ R അതായത് ഈ 5 Ω ന് ഒരു ഫലവുമില്ല ഞാൻ അത് മായ്ക്കട്ടെ അതിനർത്ഥം അപ്പോൾ എന്താണ് തുല്യമായത് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ മനസ്സിലാക്കുന്നതിനായി ഞാൻ എങ്ങനെയെങ്കിലും ഞാനിവിടെ വരയ്ക്കുന്നു ഇത് 5 ohm ആണ് ഇത് ഒരു ആമ്പിയർ ടെർമിനൽ 1 അപ്പോൾ ഇത് ആണ് 40 ohm ഇത് 10 ohm ആണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ടെർമിനൽ 2 ഉം ഇത് R2 ഉം ആണ് അതിനർത്ഥം 40 ഉം 10 ഉം സമാന്തരമായും 5 സീരീസിലുമാണ് അതായത് R2 5 10 40 10 40 കൊണ്ട് ആയിരിക്കും അതായത് 5 8 13 ohm 400 50 ഇത് 8 Ω 5 30 ohm ആയിരിക്കും ഞാൻ ഇത് മായ്ക്കട്ടെ അതിനാൽ ഇത് 13 ohm ആയിരിക്കും ഇത് തുല്യമായ സർക്യൂട്ട് ആയിരിക്കും അതിനാൽ അടുത്തത് മറ്റൊന്നാണ് അതിനാൽ ഇത് VThevenin ആണ് R2 എന്ന് മനസ്സിലായെന്നു വിചാരിക്കുന്നു ഇത് VThevenin ഇത് കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരുന്നു എനിക്ക് ഇവിടെ പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് VThevenin 100 വോൾട്ട് ആണ് ലഭിച്ചത് അതിനാലാണ് ഈ ധ്രുവങ്ങൾ ചുവടെയും ഇവിടെയും അതിനാൽത്തന്നെ ഞാൻ V 100 വോൾട്ട് എഴുതി അതിനാൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത് ഇത് 13 ohm ആണ് ഞാൻ ഇത് മായ്ക്കട്ടെ അതിനാൽ അടുത്തത് തെവെനിന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് ചിത്രം 49 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ 10 Ω റെസിസ്റ്ററിലൂടെ വൈദ്യുതധാര നിർണ്ണയിക്കുക 10 Ω പ്രതിരോധത്തിലൂടെ ഉള്ള വൈദ്യുതധാര കണ്ടെത്തണം അതായത് 10 ohm റെസിസ്റ്റൻസിലൂടെ വൈദ്യുതധാര കണ്ടെത്തേണ്ടതുണ്ട് അതിനർത്ഥം VThevenin ലഭിക്കുന്നതിന് 10 Ω പ്രതിരോധം തുറക്കണം അതുപോലെ തന്നെ അവിടെ R2 കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇത് 36 വോൾട്ട് ആണ് ഇത് ഈ ടെർമിനലുകൾക്കിടയിൽ മറ്റൊന്നുമില്ല വേറെ എലെക്ട്രിക്കൽ ഒന്നുമില്ല ഈ ടെർമിനലുകൾക്കിടയിൽ ഈ 36 വോൾട്ട് സ്രോതസ്സ് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ആദ്യം ഇത് 10 Ω പ്രതിരോധം തുറക്കുക അതിനാൽ അത് തുറക്കുക അതിനാൽ സർക്യൂട്ട് തുറന്നാൽ ഇത് പോലെ തോന്നുന്നു അതിനാൽ ഇത് 1 ഇത് 2 ആണ് അതിനാൽ ഇത് എൻ്റെ Voc VThevenin ആണ് കൂടാതെ R2 ന് വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് ചെയ്യുന്നു ഈ വോൾട്ടേജ് സ്രോതസ്സ് ഇവിടെ ഷോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഈ R2 നു വേണ്ടി ആണ് ഇത് VThevenin നു വേണ്ടി ആണ് VThevenin നു വേണ്ടി ഈ സർക്യൂട്ട് സോൾവ് ചെയ്യണം ഇപ്പോൾ കൂടുതൽ നീങ്ങുന്നതിനുമുമ്പ് ഈ കറന്റ് പരിശോധിച്ചാൽ ഈ കറന്റ് തുറന്നിരിക്കുന്നുവെന്ന് കരുതുക അടിസ്ഥാനപരമായി ഈ സ്രോതസ്സിൽ നിന്ന് i1 കറന്റ് ഒഴുകുന്നു ഇത് തുറന്നിരിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല അതിനാൽ ഈ i1 ഇവിടെ വരുന്നു ഇത് i1 ആണ് നിലവിലെ i1 ൻ്റെ ഒരു ഭാഗം i2 ഇതുപോലെ ഒഴുകുന്നു അതിനാൽ ഈ സർക്യൂട്ടിൽ ഇത് i1 i2 ഉം ഒടുവിൽ i1 i2 ഉം ഈ i2 ഈ വശം തുറന്നിരിക്കുന്നു അതിനാൽ അതേ i2 കറന്റ് ഇവിടെ ഒഴുകുന്നു ഒടുവിൽ അവർ ഇവിടെ കൂടി ചേരുമ്പോൾ ഈ i1 കറന്റ് ഈ സ്രോതസ്സിലേക്ക് മടങ്ങും ഈ രീതിയിൽ ആദ്യം സർക്യൂട്ട് നിർമ്മിക്കുക ഇതിനുശേഷം i1 i2 എന്നീ കറന്റുകൾ പരിഹരിക്കേണ്ടതുണ്ട് ഈ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ 20 Ω 30 സീരീസ് ആണ് അതിനാൽ 20 30 50 Ω ഉം വേറൊരു 50 ഉം ഇവിടെയുണ്ട് അതായത് ഈ 20 30 50 Ω ഉം ഈ 50 Ω ഉം സമാന്തരമാണ് അതായത് 50 ഉം 50 ഉം രണ്ടും സമാന്തരമാണ് അതായത് തുല്യ അളവിലുള്ള വൈദ്യുത പ്രവാഹം രണ്ടിലൂടെയും ഒഴുകും ഞാൻ ഇത് മായ്ക്കട്ടെ അതിനർത്ഥം ഈ i2 കറന്റ് ഇവിടെ ഒഴുകുന്നു 20 ohm ഉം 30 ohm ഉം രണ്ടും ശ്രേണിയിലാണ് i1 i2 ഉം 50 ലൂടെ ഒഴുകുന്നു അതായത് i1 i2 i2 ഈ കറന്റും i2 കറന്റും രണ്ടും തുല്യമായിരിക്കണം കാരണം രണ്ടും 50 50 ആയതിനാൽ ഇത് 20 30 50 അതായത് 2 i2 i1 ഇതാണ് അതിനർത്ഥം i2 i1 2 കാരണം ഇത് കറന്റ് ഡിവിഷനാണ് ഇത് കറന്റ് ഡിവിഷനാണ് അതിനാൽ ഇവിടെ i12 ഉം ഇവിടെയും എഫക്റ്റീവ് ആയിട്ടു i12 ആണ് ഒഴുകുന്നതു ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്കു KVL അപ്ലൈ ചെയാം ഇങ്ങനെ ആണ് KVL അപ്ലൈ ചെയുക അതായത് ഇത് i1 കറന്റ് ആണെങ്കിൽ ഈ കറന്റ് അടിസ്ഥാനപരമായി i2 i1 2 ആയിരിക്കും ഇവിടെ i1 i2 എന്നതും i1 2 ആണ് അതിനാൽ എളുപ്പത്തിൽ അത് കണ്ടു പിടിക്കാനാകും ഇവിടെ കെവിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് 40 i1 ആയിരിക്കും ഇവിടെ ഈ കറന്റ് യഥാർത്ഥത്തിൽ i1 2 ആണ് കാരണം കറന്റ് ഡിവിഷൻ ഉണ്ട് 50 i12 36 0 അതിൽ നിന്ന് i1 എന്താണെന്ന് ലഭിക്കും ആദ്യം അത് മായ്ക്കാം ഞാൻ പറഞ്ഞ വഴി പരിഹരിച്ചാൽ i1 ലഭിക്കും i1 36 65 ആമ്പിയർ ലഭിക്കും കൂടാതെ i2 എന്നു വെച്ചാൽ i12 ആകും അതിനാൽ 18 65 ആമ്പിയർ ലഭിച്ചു അതിനാൽ i1 i2 നിങ്ങൾക്കു ലഭിച്ചു അപ്പോൾ VThevenin എന്താണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താനാകും ഇത് ഇത് വീണ്ടും ഞാൻ ഇത് അടയാളപ്പെടുത്തുന്നില്ല കാരണം ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ ഇവിടെ KVL പ്രയോഗിക്കുകയാണെങ്കിൽ KVL ഇവിടെ എതിർ ഘടികാരദിശയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ നീങ്ങുന്നു ഇത് 40 i1 20 i2 VThevenin 0 i1 മൂല്യം i2 മൂല്യം കൊടുക്കുക ആണെങ്കിൽ VThevenin ലഭിക്കും അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് 360 13 വോൾട്ട് ആണ് കിട്ടുന്നത് അതാണ് എന്റെ VThevenin 360 13 വോൾട്ട് എന്താണ് ആ R2 എന്ന് ഇപ്പോൾ കണ്ടെത്തണം അതിനാൽ സർക്യൂട്ട് ഇതുപോലെ വീണ്ടും വരച്ചാൽ ഈ ടെർമിനൽ 1 ഉം ഈ ടെർമിനൽ 2 ഉം ആണ് ഇത് 1 ഇത് 2 ആയതിനാൽ ഇത് 1 ഇത് 2 ആണ് ഇപ്പോൾ ഈ രണ്ട് പോയിന്റുകളും പൊതു പോയിന്റാണ് അതിനാൽ അടിസ്ഥാനപരമായി ഞാൻ ഇത് ഇതുപോലെയാക്കാൻ ശ്രമിക്കുന്നു ഇത് 2 ആണ് ഇത് 20 ohm പ്രതിരോധമാണ് ഇത് 20 Ω പ്രതിരോധമാണ് ഇപ്പോൾ അടിസ്ഥാനപരമായി ഈ 40 ഉം 50 ഉം സമാന്തരമാണ് അതിനാൽ ഇത് 40 ആണ് ഇത് 50 ആണ് ഈ പോയിന്റ് പോയിന്റ് 2 ആണ് ക്ഷമിക്കണം ഇത് പോയിന്റ് 1 ആണ് തുടർന്ന് ഈ 30 ohm ഇതുപോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഈ പോയിന്റ് ഇവിടെ കൊണ്ടുവന്നു അതായത് 40 ഉം 50 ഉം സമാന്തരമായി മറ്റ് വൈദ്യുത ഘടകങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതിനാൽ അതിനാൽ 40 ഉം 50 ഉം സമാന്തരമാണ് അത് വരുന്നതെന്തും അത് 20 ohm നോട് സീരീസിലാണ് അത് വരുന്നതെന്തും വീണ്ടും 30 ohm നോട് സമാന്തരമാണ് അതിനർത്ഥം ഞാനിത് ഇതുപോലെയാക്കിയാൽ അത് യഥാർത്ഥത്തിൽ വരുന്നത് ഇത് പോലെ ആയിരിക്കും 50 ഞാൻ 40 ന് സമാന്തരമായി ഇതുപോലെയാക്കുന്നു ഈ 20 ഉണ്ടാകും അവിടെ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതിന് സമാന്തരമായി 30 വീണ്ടും ചേർക്കുക എന്താണ് വരുന്നത് എന്നു കണ്ടെത്തുക അതാണ് R 2 മനസ്സിലായെന്നു ഞാൻ കരുതുന്നു ഞാൻ അത് മായ്ക്കട്ടെ ഞാൻ ഇവിടെ ചെയ്തത് അതേ കാര്യം തന്നെയാണ് അതിനാൽ 40 ഉം 50 ഉം സമാന്തരമായി 20 അതിനു സീരീസ് ആയിട്ടും 30 വീണ്ടും സമാന്തരമാണെന്നും ഞാൻ പറഞ്ഞു ഇത് 13Ω 228 ആയി മാറും 10 Ω റെസിസ്റ്റൻസ് 10 റെസിസ്റ്റൻസിലൂടെ കറന്റ് കണ്ടെത്താൻ ആവശ്യപ്പെട്ടതിനാൽ സർക്യൂട്ട് VThevenin R2 നേരിട്ട് നൽകിയിട്ടില്ല i VThevenin R210 അതിനാൽ R2 ഇതായിട്ടു മാറുന്നു VThevenin 360 13 ലഭിച്ചു ആത്യന്തികമായി ഇത് 360 358 ആമ്പിയർ ആണ് ഏകദേശം 1 ആമ്പിയർ അതായത് i ഞാൻ ഇത് മായ്ക്കട്ടെ ക്ഷമിക്കണം ഇത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്ന് ലഭിക്കില്ല മനസ്സിലാക്കലിനായി മാത്രം ഞാൻ പലതരം ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഓർമ്മിക്കുക എസി സർക്യൂട്ടിനായി സമയം പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ വളരെയധികം ചോദ്യങ്ങൾ എടുക്കാൻ സാധ്യമല്ല ഉദാഹരണം 20 ചിത്രം 51 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ 2 Ω റെസിസ്റ്ററിൽ കൂടിയുള്ള വൈദ്യുതധാര നേടുക തെവെനിന്റെ സിദ്ധാന്തം ഉപയോഗിക്കുക സൂപ്പർ പൊസിഷൻ സിദ്ധാന്തവും തെവെനിൻ വോൾട്ടേജ് ലഭിക്കുന്നതിന് ഉപയോഗിക്കും ഈ സാഹചര്യത്തിൽ 2 Ω പ്രതിരോധത്തിലൂടെയുള്ള വൈദ്യുതധാര എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതായത് 2 Ω പ്രതിരോധത്തിലൂടെയുള്ള വൈദ്യുതധാര എന്താണ് ആദ്യം 2 Ω പ്രതിരോധം നീക്കംചെയ്യുകയും R2 VThevenin എന്നിവ കണ്ടെത്തുകയും വേണം അതിനാൽ തുല്യമായ സർക്യൂട്ടിലേക്ക് പോകുക അതിനാൽ ഈ സാഹചര്യത്തിൽ 2 Ω പ്രതിരോധം എടുത്തുകളഞ്ഞാൽ എന്ത് സംഭവിക്കും 2 Ω പ്രതിരോധം തുറന്നിരിക്കുന്നു ഇവിടെ ഒരു വോൾട്ടേജ് Va മറ്റൊരു വോൾട്ടേജ് Vb ആണ് ഈ വോൾട്ടേജ് Va ഈ വോൾട്ടേജ് Vb ആണ് നോഡൽ വിശകലനത്തിൽ ഇത് ഗ്രൌണ്ട് ആണെന്നു കരുതുകയാണെങ്കിൽ ഈ 2 വോൾട്ടേജുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ ആത്യന്തികമായി VThevenin നേടേണ്ടതുണ്ട് ഇത് 30 വോൾട്ട് സ്രോതസ്സാണ് 9 ആമ്പിയർ സ്വതന്ത്ര കറന്റ് സ്രോതസ് ഉണ്ട് ഒരു 4 ആമ്പിയർ സ്വതന്ത്ര കറന്റ് സ്രോതസ് ഉണ്ട് 2 സ്വതന്ത്ര കറന്റ് സ്രോതസ് ഉണ്ട് 32 വോൾട്ടിന്റെ ഒരു സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ് ഉണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ നോഡിൽ കെസിഎൽ പ്രയോഗിക്കുക എന്നതാണ് കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ 9 ആമ്പിയർ കറന്റ് ഇതിലേക്ക് പ്രവേശിക്കുന്നു ഇത് 9 ആക്കാൻ കഴിയും തുടർന്ന് ഈ 9 പ്രവേശിക്കുന്നു ഇത് 5 Ω പ്രതിരോധമാണ് ഈ വോൾട്ടേജ് Va അതിനാൽ ഈ കറന്റ് പുറത്തേക്കു പോകുകയാണ് അതിനാൽ ഇത് Va 5 ആണ് അതിനാൽ 9 ന് Va 5 ആക്കാൻ കഴിയും ഈ കറന്റ് പുറത്തേക്കു പോകുകയാണ് മറ്റൊരു കറന്റ് ഈ ദിശയിൽ എടുക്കുകയാണെങ്കിൽ ഈ 4 Ω പ്രതിരോധം ഇവിടെയുണ്ട് അത് Va ആയിരിക്കും ഈ വോൾട്ടേജ് Vb Vb 4 ആണ് ഈ 4 Ω പ്രതിരോധം കാരണം ഇത് Va 5 ഇത് V ആണ് ഇത് 9 Va 5 ആണ് അതിനാൽ ഇത് Va 5 Va ഇത് ഒരു സമവാക്യമാണ് ഇത് ഒരു സമവാക്യം ലഭിക്കും ഞാൻ ഇത് മായ്ക്കട്ടെ ഇനിയും സമവാക്യങ്ങൾ ഉണ്ട് ഞാൻ ഒന്നും വിട്ടു പോയിട്ടില്ല എന്നു കരുതുന്നു നോഡ് ബി യിൽ KCL പ്രയോഗിച്ചാൽ അതിനാൽ ഇത് പ്രവേശിക്കുന്നു Va Vb 4 ൽ ഈ 4 Ω റെസിസ്റ്റൻസ് കാരണം ഇതിലൂടെ കറന്റ് Vb10 ഉം ഈ 4 ആമ്പിയർ കറന്റും പ്രവേശിക്കുന്നു ഇത് അടിസ്ഥാനപരമായി 4 Va Vb 4 ആണ് കാരണം ഈ വൈദ്യുതധാര പ്രവേശിക്കുകയും ഈ വൈദ്യുതധാര പുറത്തേക്കു പോകുകയാണ് V b 10 അതിനാൽ 2 സമവാക്യങ്ങൾ കണ്ടെത്തുകയും 2 സമവാക്യങ്ങൾ ഉപയോഗിച്ച് Va Vb പരിഹരിക്കുകയും ചെയ്യാം ഞാൻ ഒന്നും വിട്ടു പോയിട്ടില്ല എന്നു പ്രതീക്ഷിക്കുന്നു ഇത് തുറന്നിരിക്കുന്നതിനാൽ ഇവിടെ ഒരു കറന്റും ഒഴുകുന്നില്ലെന്നും ഇവിടെ ഒരു കറന്റും ഒഴുകുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ എഴുതിയ ആ 2 സമവാക്യങ്ങൾ ഇവിടെ നോഡ് a യിൽ ഉള്ള ഒരു സമവാക്യം ഇവിടെ നോഡ് b യിൽ ഉള്ള മറ്റൊരു സമവാക്യം ആണ് Va Vb ലഭിക്കാൻ 1 ഉം 2 ഉം സമവാക്യങ്ങൾ സോൾവ് ചെയ്യുക അങ്ങനെ ചെയ്താൽVa 830 19 ഉം Vb 810 19 ഉം ലഭിക്കും അതിനാൽ r V തെവെനിൻ ലഭിക്കുന്നതിന് ആ KVL പ്രയോഗിക്കുക ഈ വോൾട്ടേജ് Va ആണ് അമ്പടയാളം കാണിക്കുന്നത് പോസിറ്റീവ് ദിശ ആണ് ഇത് യഥാർത്ഥത്തിൽ Va ഉം ഈ വോൾട്ടേജ് ഇത് r Vb ഉം ആണ് ഇത് ഗ്രൌണ്ടഡ് ആണെന്നു കരുതുകയാണെങ്കിൽ അതിനർത്ഥം ഇത് ആണ് ഇതും ആണ് അതിനാൽ ഞാൻ ഈ മെഷിൽ KVL പ്രയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ നീങ്ങിയാൽ ഇതു 32 ആയിരിക്കും കാരണം ടെർമിനലുകൾ ആദ്യം വരുന്നു Va കാരണം Va ആദ്യം വരുന്നു അപ്പോൾ ഇതു അതിനാൽ Vb അവിടെ അത് VThevenin 0 അതിനർത്ഥം VThevenin Va Vb 32 അതിനർത്ഥം ഞാൻ ഇതു മായ്ക്കട്ടെ അതിനർത്ഥം ഞാൻ എഴുതിയത് V Va Vb VThevenin 32 VThevenin ഞാൻ അവിടെ എഴുതിയത് Va Vb 32 അതിനാൽ ഇതെല്ലാം ഇടുകയാണെങ്കിൽ VThevenin 30 947 വോൾട്ട് ലഭിക്കും അങ്ങനെ അർത്ഥമാക്കുന്നത് ധ്രുവീയത ഉണ്ടാക്കും അത് താഴേക്ക് ആയിരിക്കും സമാനമായി R2 ന് ഈ ഒരു വോൾട്ടേജ് സ്രോതസ്സ് ഇവിടെയുണ്ട് ഇത് ഷോർട്ട് ചെയ്തിരിക്കുന്നു കറന്റ് സ്രോതസ്സ് തുറന്നിരിക്കുന്നതുമാണ് അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് ഈ 5 ഉം 10 ഉം Ω സീരീസിലാണ് ഇത് 5 10 15 ആണ് ഇത് തുറന്നിരിക്കുന്നു 5 ഉം 10 ഉം ശ്രേണിയിലാണ് 4 Ω സമാന്തരമാണ് അതിനാൽ R2 15 4 15 4 അത് r R2 ആയിരിക്കും കാരണം ഇത് 1 2 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയാണ് ഈ 2 ഉം തുറന്നിരിക്കുന്നു ഇത് 1 ഉം ഈ ടെർമിനൽ 2 ഉം ആണ് ഇത് ഒന്നാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ 4 Ω ആണ് ഇവിടെ 5 10 ഉം അതിനാൽ ഇവിടെ ഇത് യഥാർത്ഥത്തിൽ 15 Ω ഉം ഇത് 1 ഉം 2 ഉം ആണ് 4 ഉം 15 ഉം സമാന്തരമാണ് അതിനാൽ എന്ത് വന്നാലും അതിനാൽ ഈ സാഹചര്യത്തിൽ R2 60 19 Ω ആകും അതിനാൽ തെവെനിന് തുല്യമായത് r ആയിരിക്കും ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ VThevenin 30 947 ആയിരുന്നു ഇവിടെ താഴെയാണ് ഇത് ഇതുപോലെ നീങ്ങുന്നു ഇത് R2 ആണ് 2Ω റെസിസ്റ്റൻസ് അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ വൈദ്യുതധാരയുടെ മൂല്യം ലഭിക്കും അതിനാൽ i VThevenin R22 Ω ഈ 2Ω ഈ മൂല്യങ്ങളെല്ലാം ഇടുക അതിനാൽ ഇത് ഏകദേശം 6 ആമ്പിയർ ആണ് അതിനാൽ ഇതാണ് ഉത്തരം ഇപ്പോൾ അടുത്തത് സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന തെവെനിൻ വോൾട്ടേജ് നേടുക ഇപ്പോൾ സൂപ്പർ പൊസിഷൻ സിദ്ധാന്തം ഉപയോഗിച്ച് തെവെനിൻ വോൾട്ടേജ് എന്ത് ലഭിക്കും 3 സ്രോതസ്സുകൾ ഉള്ളതിനാൽ 3 സ്രോതസ്സുകൾ ഒരു വോൾട്ടേജ് സ്രോതസ്സ് 2 കറന്റ് സ്രോതസ്സ് ഒരേ സമയം ഒരു സ്രോതസ്സ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ഇതേ ഉദാഹരണം r സൂപ്പർ പൊസിഷൻ സിദ്ധാന്തം ഉപയോഗിച്ച് തെവെനിൻ വോൾട്ടേജ് നേടുന്നു 3 സ്രോതസ്സുകൾ ഒരു സമയം ഒരെണ്ണം മാത്രമേ എടുക്കൂ അതിനാൽ ഈ സാഹചര്യത്തിൽ ആദ്യം വോൾട്ടേജ് സ്രോതസ്സ് പരിഗണിക്കുക ഈ ഒരേയൊരു വോൾട്ടേജ് സ്രോതസ്സ് പരിഗണിക്കുക ഈ നിലവിലെ 2 സ്രോതസ്സുകൾ ഓഫ് ചെയ്യുകയും കറന്റ് ഇവിടെ i1 i2 ആണ് i1 i2 എന്നിവയ്ക്കായി പരിഹരിക്കുക പിന്നീട് ഞാൻ പരിഹാരം നൽകും അല്ലാത്തപക്ഷം ഇത് കൂടുതൽ സമയം ചെലവഴിക്കും അതിനാൽ i1 i2 അടുത്തത് 9 ആമ്പിയർ കറന്റ് സ്രോതസ്സ് മാത്രം പരിഗണിക്കുക ഈ 9 ആമ്പിയർ കറന്റ് സ്രോതസ്സും ഈ വോൾട്ടേജ് സ്രോതസ്സും ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ കറന്റ് സ്രോതസ്സ് തുറന്നിരിക്കുന്നു ഒരു സമയം ഒന്ന് മാത്രം കറന്റ് ഇവിടെയുണ്ട് i3 i4 എന്നിവയ്ക്കായി പരിഹരിക്കേണ്ടതുണ്ട് അടുത്തത് r 4 ആമ്പിയർ കറന്റ് സ്രോതസ്സ് ആണ് എന്നാൽ മറ്റ് 2 ഇത് ഷോർട്ട് ചെയ്ത വോൾട്ടേജ് സ്രോതസ്സാണ് ഇത് കറന്റ് ഇത് തുറന്നിരിക്കുന്നു i5 i6 എന്നിവയാണ് നേടേണ്ടത് എല്ലാ a b c സർക്യൂട്ടുകളും ഇവിടെ എഴുതിയിട്ടുണ്ട് അതിനാൽ ഇത് സൂപ്പർ പൊസിഷൻ സിദ്ധാന്തം കാണിക്കാൻ മാത്രമാണ് അടുത്തത് അത് പരിഹരിക്കുമ്പോഴാണ് ഫിഗർ a യിൽ നിന്ന് നോക്കുക ഇതാണ് പരിഹാരങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെ ഫിഗർ ബി ഫിഗർ എ ഇതിന് i1 0 i2 0 നൽകിയിരിക്കുന്നു അതുപോലെ ചിത്രം b r i3 6 63 ആമ്പിയർ i4 2 37 ആമ്പിയർ ആണ് ഞാൻ ഇവിടെ എഴുതിയതെല്ലാം പരിഹരിക്കുക ദയവായി അത് പരിഹരിക്കുക അതുപോലെ തന്നെ ചിത്രം c i5 ന് 2 11 ആമ്പിയറും i6 1 89 ആമ്പിയറും ലഭിച്ചു 5 Ω റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര i5 എഴുതുന്നു i1 i3 i5 ഇത് കൂട്ടുക സൂപ്പർ പൊസിഷൻ 8 74 ആമ്പിയർ അതുപോലെ തന്നെ 10 Ω റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന കറന്റ് ഇവിടെ i2 i4 i6 ആണ് ഇത് 4 26 ആമ്പിയർ വരുന്നു അതിനാൽ Va 5 i5 r 5 Ω റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹം i5 അതായത് 5 8 74 43 7 വോൾട്ടും Vb r 10 i1 0 Ω ലേക്ക് 10 പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയും എഴുതുന്നു അതിനാൽ 10 4 6 അതിനാൽ 42 6 വോൾട്ട് V Thevenin Va Vb 3 തുടക്കത്തിൽ ഞാൻ ഇതിനായി എഴുതിയിട്ടുണ്ട് അതിനാൽ Va Vb ഇടുക സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ച് 30 9 വോൾട്ട് ലഭിക്കും സൂപ്പർ പൊസിഷൻ ഒരുപാടു സമയം എടുക്കുന്നു അടുത്തത് r നോർട്ടൺ സിദ്ധാന്തമാണ് ഒരു ലീനിയർ 2 ടെർമിനൽ സർക്യൂട്ടിനെ ഒരു റെസിസ്റ്റർ R n ന് സമാന്തരമായി കറന്റ് സ്രോതസ്സ് iN അടങ്ങുന്ന തുല്യമായ സർക്യൂട്ടുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാമെന്ന് നോർട്ടൺ സിദ്ധാന്തം പറയുന്നു നോർട്ടൺ സർക്യൂട്ട് ൽ R Norton R2 എന്നിവ തുടക്കത്തിൽ തന്നെ അവ സമാനമാണ് R Norton R2 തെവെനിൻ ഈ കാര്യം 92 ൽ അദ്ദേഹം നൽകിയതെന്നു കരുതുന്നു നോർട്ടൺ ഒരുപക്ഷേ 1933 അല്ലെങ്കിൽ 37 കൃത്യമായി ഞാൻ കാര്യം മറന്നിരിക്കുന്നു അതായത് ഏകദേശം 40 വർഷത്തിലേറെയായി അതിനാൽ ചിലപ്പോൾ ഉറവിട പരിവർത്തനത്തെ തെവെനിൻ നോർട്ടൺ പരിവർത്തനം എന്ന് വിളിക്കുന്നു തെവെനിൻ വോൾട്ടേജ് സ്രോതസ്സും പ്രതിരോധവും നൽകുന്നതിനാൽ നോർട്ടണിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ അത് ഒരു കറന്റ് സ്രോതസ്സായിരിക്കും കൂടാതെ തെവെനിൻ പ്രതിരോധത്തിലെ സമാന്തരമായി പ്രതിരോധം വോൾട്ടേജ് ഉറവിടവുമായി സീരീസ് ആയിരിക്കും അതിനാൽ i N നൽകുന്ന ടെർമിനലുകളിലേക്കുള്ള ഷോർട്ട് സർക്യൂട്ട് കറന്റും R n സ്വതന്ത്ര സ്രോതസ്സുകൾ ഓഫ് ചെയ്യുമ്പോൾ ടെർമിനലിൽ ഉണ്ടാകുന്ന ഇൻപുട് അല്ലെങ്കിൽ സമാനമായ പ്രധിരോധം ഇത് r r2 R Norton പോലെയാണ് അതിനർത്ഥം R Norton R2 അതിനാൽ R2s സിദ്ധാന്തം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിനുള്ളതാണ് ഈ സാഹചര്യത്തിൽ ആ ഷോർട്ട് സർക്യൂട്ട് കറന്റ് എന്ന് നിങ്ങൾ വിളിക്കുന്നത് ലഭിക്കും അതിനർത്ഥം ഇത് ഒരു ലീനിയർ 2 ടെർമിനൽ സർക്യൂട്ടാണ് ഇത് ഒരു ലീനിയർ ആണ് ഇത് r iNorton യഥാർത്ഥത്തിൽ iNorton i ഷോർട്ട് സർക്യൂട്ടും നോർട്ടൺ പ്രതിരോധം ഒരു Thevenin പ്രതിരോധത്തിന് തുല്യമാണ് iNorton iSC എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ഇത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണെങ്കിൽ iNorton iSC ആയിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ് എന്താണെന്ന് കണ്ടെത്തുക തുടർന്ന് തെവെനിൻ റെസിസ്റ്റൻസും ഈ നോർട്ടൺ ആർ 2 നോർട്ടൺ റെസിസ്റ്റ രണ്ടും സമാന്തരമായിരിക്കും അതിനാൽ അത് ഓപ്പൺ സർക്യൂട്ട് ആയിരുന്നു തെവെനിന്റെ കാര്യത്തിൽ നോർട്ടന്റെ കാര്യത്തിൽ അത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അതിനാൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ് iSC കണ്ടെത്തേണ്ടതുണ്ട് അത് ഒന്നുമല്ല iNorton ഉം R നോർട്ടണും r R2 ന് സമാനമാണ് ഞാൻ അത് മായ്ക്കട്ടെ ഇതുപയോഗിച്ച് ഈ റൈറ്റ് അപ്പ് ഇവിടെയുണ്ട് അതിനാൽ ഞാൻ പറഞ്ഞത് iNorton iSC അതിനർത്ഥം ഞാൻ പറഞ്ഞത് ടെർമിനൽ 1 2 ഷോർട്ട് ആക്കുക അതിനെ iSC r iNorton ആക്കുക അതിനാൽ അത് r ഷോർട്ട് സർക്യൂട്ട് കറന്റാണ് അതിനാൽ നോർട്ടൺ കറന്റ് കണ്ടെത്തുന്നു അതായത് iNorton അടിസ്ഥാനപരമായി VThevenin R2 ആണ് ഇത് അടിസ്ഥാനപരമായി തെവെനിൻ നോർട്ടൺ പരിവർത്തനമാണെന്ന് കരുതുന്നു ഇവിടെ തെവെനിൻ സിദ്ധാന്തം മാത്രമാക്കി മാറ്റുന്നുവെന്ന് കരുതുക ഇത് r VThevenin ലഭിച്ചു ഇത് r R2 ആണ് ഇത് ടെർമിനൽ ഒന്ന് ഇത് ടെർമിനൽ 2 ആണ് ഇത് r R2 ഉറവിട പരിവർത്തനത്തിനായി പോയാൽ അത് r iNorton ആയിരിക്കും ഇത് r അടിസ്ഥാനപരമായി R2 R Norton രണ്ടും തുല്യമാണ് ഇത് ടെർമിനൽ 1 2 ആണ് അതായത് iNorton ഉറവിട പരിവർത്തനം VThevenin R2 അതിനാൽ ഇത് അടിസ്ഥാനപരമായി R2 ൻറെ നോർട്ടൺ പരിവർത്തനമാണെന്ന് ചിലപ്പോൾ വിളിക്കുക അതിനാൽ ഇത് വോൾട്ടേജ് സ്രോതസ്സ് റെസിസ്റ്റൻസുമായി സീരീസ് ൽ ആണ് അവിടെ അത് പ്രതിരോധത്തിന് സമാന്തരമായി കറന്റ് സ്രോതസ്സായിരിക്കും അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്ഇത് വായിക്കുക എന്നാൽ ഇതിന്റെ സാരാംശം എന്താണെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ തെവെനിൻ സിദ്ധാന്തമോ പ്രതിരോധമോ ലഭിച്ച പോലെ തന്നെ നോർട്ടൺ പ്രതിരോധത്തെ ലഭിച്ചു അതിനാൽ VThevenin Voc iNorton i s c R2 അടിസ്ഥാനപരമായി VThevenin iSC R Norton Voc VThevenin R2 അടിസ്ഥാനപരമായി r VThevenin iSC നോർട്ടൺ റെസിസ്റ്റൻസ് അതേ രീതിയിൽ തന്നെ ലഭിക്കും അതിനാൽ ഈ ഒരു ഉദാഹരണം ഉപയോഗിച്ച് ചിത്രം 58 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ നോർട്ടൺ തുല്യമായ സർക്യൂട്ട് നിർണ്ണയിക്കുക ഈ 2 ആമ്പിയർ സ്വതന്ത്ര സ്രോതസ്സിൻറെ നോർട്ടൺ തുല്യ സർക്യൂട്ട് ലഭിക്കാൻ 10 വോൾട്ട് സ്രോതസ്സ് 4Ω 2Ω 5Ω 2Ω തുടങ്ങിയ പ്രതിരോധങ്ങളും ഉണ്ട് ആദ്യം നോർട്ടൺ തുല്യമായ സർക്യൂട്ട് ലഭിക്കാൻ R Norton R2 അതിനർത്ഥം കറന്റ് സ്രോതസ്സ് തുറന്നിരിക്കുന്നു വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് ആണ് അതിനർത്ഥം ഇപ്പോൾ ഇതുപോലെയാണെങ്കിൽ ഇത് തുറന്നതാണെന്ന് കാണാൻ കഴിയും അതിനാൽ 2Ω 4Ω 2Ω ഈ 3 റെസിസ്റ്ററുകൾ ശ്രേണിയിലാണ് അതിനാൽ ആകെ 242 8Ω ആയിരിക്കും 5 സമാന്തരമായി ആണ് അതിനാൽ R Norton r 85 ആയിരിക്കും അതിനാൽ ഇത് 40 13 Ω ആണ് അതിനാൽ R Norton ഒന്നുമല്ല പക്ഷേ R2 അതേ കാര്യം തന്നെ തെവെനിൻ നേടുന്ന വഴിക്ക് R Norton ലഭിച്ചു ഷോർട്ട് സർക്യൂട്ട് കറന്റ് കണ്ടെത്തണം തെവെനിൻ തുല്യമായ സർക്യൂട്ട് ൽ 1 2 എന്നിവ തുറന്നിരിക്കുന്നു എന്നാൽ ഇവിടെ ഇത് ഷോർട്ട് ചെയ്തിരികുകയും iSC ലഭിക്കുകയും ചെയ്തു അതിനാൽ ഇതാണ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് iSC ഈ സാഹചര്യത്തിൽ ഇത് i1 കൂടിയാണ് അടിസ്ഥാനപരമായി ഇത് 2 ആമ്പിയർ മുകളിലേക്ക് പോകുന്നു അതിനാൽ i1 2 ആമ്പിയർ ഈ സാഹചര്യത്തിൽ ഇത് r 2 Ω ആണെങ്കിൽ KVL പ്രയോഗിച്ചാൽ ഞാൻ ഇതുപോലെ പോയി r KVL പ്രയോഗിക്കുന്നുവെന്ന് കരുതുക അതിനാൽ ഈ കറന്റ് i ഷോർട്ട് സർക്യൂട്ട് short circuit കറന്റ് എന്ന് വിളിക്കുന്നു അതിനർത്ഥം ഇവിടെ കറന്റ് ഇല്ല5 ഈ 5 Ω ൻറെ പ്രതിരോധം ഇത് ഫലപ്രദമാകില്ല കാരണം ഇത് ഷോർട്ട് ആണ് അതിനാൽ കറന്റ് ഇതുപോലെ പ്രവഹിക്കും അതിനാലാണ് ഇത് ഇതുപോലെ കാണിക്കുന്നത് കാരണം ഇത് ഷോർട്ട് ആണ് ഇപ്പോൾ KVL ഇവിടെ പ്രയോഗിക്കുക r i2 ലഭിക്കും ഞാൻ ഇത് എഴുതിയാൽ 2 2 Ω 5 Ω 2 Ω ആണ് അതിനാൽ 252 ഇത് 9 i2 ആയി 9 i2 ഇതുപോലെ നീങ്ങുകയും r i2 അടിസ്ഥാനപരമായി iSC ആകുകയും ചെയ്യും കാരണം ഇത് iSC i2 i s c ആയി എടുത്തിട്ടുണ്ട് പിന്നെ 10 കാരണം ടെർമിനൽ ആദ്യംവരുന്നു r4 i2 i1 0 ഇതുപോലെ നീങ്ങുന്നു അതിനാൽ 4 i2 i1 ഞാൻ നേരത്തെ i1 2 ആമ്പിയർ എന്ന് പറഞ്ഞു ഇവിടെ i1 2 ആമ്പിയർ ഇടുക തുടർന്ന് i2 നായി പരിഹരിക്കുക ഇതാണ് R2 കണ്ടു പിടിക്കാനുള്ള സർക്യൂട്ട് ഇവിടെ ഇതിന് i3 i4 Voc VThevenin കണക്കുകൂട്ടലിനായി എന്നിവ നൽകിയിട്ടുണ്ട് ഇപ്പോൾ പലതും പരിഹരിച്ചതിന് ശേഷം അത് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും അതിനാൽ നോർട്ടൺ നൽകിയിട്ടുണ്ട് 3 007 ഞാൻ അത് എങ്ങനെ വരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ i1 ഞാൻ 2 ആമ്പിയർ പറഞ്ഞു അത് എങ്ങനെ നേടാമെന്ന് ഞാൻ സമവാക്യം നൽകി 8 i2 4 i1 10 എന്നാൽ i1 2 അതിനാൽ i2 2 25 ആമ്പിയർ ലഭിക്കും അതായത് ഞാൻ ഷോർട്ട് സർക്യൂട്ട് i2 2 25 ആമ്പിയർ എന്നും പറഞ്ഞു പകരമായി i n VThevenin R2 കൊണ്ട് നിർണ്ണയിക്കുക കാരണം ഉറവിട പരിവർത്തനം ഞാൻ തെവെനിൻ നോർട്ടൺ പരിവർത്തനം ആണെന്നു പറഞ്ഞു i n VThevenin R2 ആണെന്നു പറഞ്ഞു അതിനാൽ ഈ സർക്യൂട്ടിന് തുല്യമായ തെവെനിൻ പരിഹരിച്ചാൽ ഇത് പരിഹരിച്ചാൽ ഈ സർക്യൂട്ട് പരിഹരിച്ചാൽ അത് പരിഹരിക്കേണ്ടത് എങ്ങനെ ആണെന്നു ഇപ്പോൾ അറിയാം അതിനാൽ ഈ സർക്യൂട്ട് പരിഹരിച്ചാൽ r i3 i4 ലഭിക്കും i3 2 ആമ്പിയറും i4 1 38 ആമ്പിയറും ലഭിക്കും അതിനാൽ iNorton VThevenin R the thevenin R2 6 007 2 25 ആമ്പിയർ അതുപോലെ ഇവിടെയും ഷോർട്ട് സർക്യൂട്ട് കറന്റ് അതായത് r iNorton കാരണം ഇത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് i n r i ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ് അതായത് r നോർട്ടൺ കറന്റ് 2 25 ആമ്പിയർ തെവെനിൻ R2 riNorton അടിസ്ഥാനപരമായി ഇത് ഷോർട്ട് സർക്യൂട്ട് കറന്റാണ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് VThevenin R2 ആണ് 25 R R2 R Norton എന്നിവ സമാനമാണ് Voc i o c i s c iSC അതായത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് അനുസരിച്ച് VThevenin ഇവിടെ 3 ഇത് സ്ഥിരീകരിക്കുന്നതിന് തെവെനിനും നോർട്ടണും കാണിച്ചിരിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ തെവെനിൻ തുല്യമാണ് ഇത് നോർട്ടൺ തുല്യമാണ് അതായത് VThevenin R2 ചെയ്താൽ iNorton 2 25 ആമ്പിയർ ലഭിക്കും R n 3 007 Ω ഇത് സമാന്തരമാണ് കൂടാതെ iNorton VThevenin R2 ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി തെവെനിന്റെ നോർട്ടൺ പരിവർത്തനം അല്ലെങ്കിൽ നോർട്ടൺ തെവെനിന്റെ പരിവർത്തന സ്രോതസ്സ് പരിവർത്തനം Thevenin Norton source transformation ഇങ്ങനെ ആണ്